നമുക്ക് ക്വയറി ഒപ്റ്റിമൈസേഷന്റെ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് പോകാം അത് ജോയിൻ ഓർഡർ ആണ് ജോയിൻ ഓർഡർ താഴെ കൊടുത്തിരിക്കുന്നു താഴെ പറയുന്ന നാച്ചുറൽ ജോയിൻ കണക്കാക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുക അതിനാൽ n ബന്ധങ്ങൾ r1 ന്റെ നാച്ചുറൽ ജോയിൻ എന്നിവ r2 ൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കൂടാതെ rn ഉം വിലയിരുത്തേണ്ടതുണ്ട് ചോദ്യം ഇതാണ് ഈ ജോയിൻ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് വ്യക്തമായി r1 ആദ്യം r2 ൽ ജോയിൻ ചെയ്യാം തുടർന്ന് ഫലം r3 ൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ rn ന് ആദ്യം rn 1 നോടൊപ്പം ജോയിൻ ചെയ്യാം അത് rn 2 നോടൊപ്പം ജോയിൻ ചെയ്യാം അത് പോലെ സാധ്യമായ നിരവധി മാർഗങ്ങളുണ്ട് അത് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം സാധ്യമായ എത്ര മാർഗ്ഗങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ബന്ധങ്ങളുടെ ക്രമം മാറാൻ കഴിയുന്നില്ലെങ്കിൽ അതായത് ഈ ജോയിനുകളുടെ ക്രമം r1 r2 എന്നിവ മാറ്റാൻ കഴിയില്ല അതിനാൽ r1 ന് r3 ൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് r2 ൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല അതിനാൽ r1 r2 മായി ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ r2 r3 മായി ജോയിൻ ചെയ്യണം അത് r1 മായി ജോയിൻ ചെയ്യാം ഇവയ്ക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജോയിൻ പൂർത്തിയാക്കുന്നതിനുള്ള സാധ്യമായ എല്ലാ വഴികളും കറ്റാലൻ സംഖ്യയാണ് ഇത് കറ്റാലൻ സംഖ്യയാണ് ഒരു കറ്റാലൻ സംഖ്യയുടെ നിർവചനം കൃത്യമാണ് ഈ പദപ്രയോഗം ബ്രാക്കറ്റ് ചെയ്യുന്നതിനുള്ള നിരവധി മാർഗമാണിത് ഈ എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം r1 r2 എന്നിവയിൽ ജോയിൻ ചെയ്യണം തുടർന്ന് r3 ൽ ചേരുകയുമാണ് അത് പിന്നീട് rn വരെ അങ്ങനെ ജോയിൻ ചെയ്യും ഇത് ബ്രാക്കറ്റ് ചെയ്യുന്നതിന് നിരവധി മാർഗങ്ങളുണ്ടെന്ന് കാണാൻ കഴിയും നമ്മൾ കൃത്യമായി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതും ഇതാണ് എന്ന ക്രമത്തിന്റെ കറ്റാലൻ സംഖ്യയുടെ നിർവചനം അതാണ് കാരണം അവയിലൊന്ന് ഇതിനകം പൂർത്തിയായിക്കഴിഞ്ഞു അതിനാൽ ഇത് ചെയ്യുന്നതിന് n 1 വഴികളുണ്ട് കറ്റാലൻ നമ്പർ ലളിതമായി എഴുതാം അതിനാൽ ഇത് എന്നത് താഴെ പറയുന്ന രീതിയിൽ എഴുതാം അതാണ് വഴികളുടെ എണ്ണം വലിയ n കൾക്ക് ഇത് വളരെ വലുതാണ് ഉദാഹരണത്തിന് ചെറിയ n ന് ഇത് വലുതല്ല ഉദാഹരണത്തിന് n 3 ആണെങ്കിൽ Jn 1 2 ന് തുല്യമാണ് ഒരാൾക്ക് ഈ പദപ്രയോഗം വിലയിരുത്താൻ കഴിയും എന്തുകൊണ്ടെന്നാൽ അത് ചെയ്യുന്നതിന് രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ അത് r1 r2 മായി ജോയിൻ ചെയ്യാം അതിനുശേഷം അത് r3 മായി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ r2 r3 മായി ജോയിൻ ചെയ്യാം അതിനുശേഷം ഇത് r1 മായി ചേർത്തിരിക്കുന്നു പക്ഷേ പൊതുവേ വലിയ n കളുള്ള വളരെ വലിയ സംഖ്യയാണിത് ഈ പദപ്രയോഗം വിലയിരുത്തുന്നത് അത്ര എളുപ്പമല്ല ബന്ധങ്ങളുടെ ക്രമം മാറ്റാൻ കഴിയാത്ത അവസരത്തിൽ അത് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം കമ്മ്യൂറ്റിവിറ്റി വ്യത്യസ്തമായി കണക്കാക്കുമ്പോൾ ആണ് ഇത് അർത്ഥമാക്കുന്നത് എന്നത് ൽ നിന്ന് വ്യത്യസ്തമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ എന്നത് വ്യത്യസ്തമാണ് വ്യത്യസ്തമായി കണക്കാക്കപ്പെടുന്നു മൂല്യനിർണ്ണയത്തിനുള്ള മൊത്തം വഴികളുടെ എണ്ണം ഇത് നൽകുന്നത് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ Cn Jn 1 അല്ലെങ്കിൽ കാറ്റലൻ നമ്പർ ആണ് എന്താണ് ഇതിനർത്ഥം കാരണം ഇത് വ്യത്യസ്തമായി കണക്കാക്കപ്പെടുന്നു ഈ കോമ്പിനേഷനുകളെല്ലാം വ്യത്യസ്തമാണ് ഇവയിൽ ഓരോന്നിനും കോമ്പിനേഷനുകൾ ഉണ്ട് എല്ലാം വ്യത്യസ്തമാണ് ഫാക്ടോരിയൽ തവണ കറ്റാലൻ നമ്പർ Cn നൽകുന്നു n 2 എന്ന് നമുക്ക് ഇവിടെ കാണാം Cn 2 ആയത് കാരണം എന്നിവയാണ് എന്നാൽ വലിയ n ന് ഇത് മുമ്പത്തേതിനേക്കാൾ വലുതാണ് അതിനാൽ ഇത് വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടാണ് അതാണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു ചിന്താ രീതി കമ്മ്യൂറ്റിവിറ്റി വ്യത്യസ്തമായി കണക്കാക്കാത്തപ്പോൾ r1 r2 നോട് ജോയിൻ ചെയ്യുന്നതും r2 r1 നോട് ജോയിൻ ചെയ്യുന്നതും തുല്യമാണ് അവവ്യത്യസ്തമല്ല അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം Nn ഉം Cn ഉം തമ്മിലുള്ള ബന്ധം അത് എന്നത് വ്യക്തമാണ് കാരണം നിങ്ങൾ ഒരു കാര്യം ശരിയാക്കിയാൽ മറ്റ് n 1 ബന്ധങ്ങൾ എവിടെയും പോകാം n 3 Nn 3 ഉദാഹരണങ്ങൾ എന്നിവയ്ക്കായി മൂന്ന് കാര്യങ്ങൾ ആണ് ഉള്ളത് ഉദാഹരണത്തിന് r1 r2 r3 മായി ജോയിൻ ചെയ്യാം അത് ഒന്നാണ് അടുത്തത് r1 എന്നത് r2 r3 എന്നിവയുമായി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ r1 r3 എന്നതിനൊപ്പം ജോയിൻ ചെയ്യാം ഇത് r2 ൽ ജോയിൻ ചെയ്യാം പ്രധാനമായും ആദ്യത്തെ r1 ഉം r3 ഉം ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ r2 ഉം r3 ഉം ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ r1 ഉം r3 ഉം ജോയിൻ ചെയ്യാം കമ്മ്യൂറ്റിവിറ്റി വ്യത്യസ്തമല്ലാത്തതിനാൽ നിങ്ങൾ എങ്ങനെയാണ് r1 r2 അല്ലെങ്കിൽ ഓർഡർ എഴുതുന്നത് എന്നത് പ്രശ്നമല്ല Refer Time 0610 അതാണ് ജോയിൻ ഓർഡറുകൾ ഇപ്പോൾ ചോദ്യം എന്തുകൊണ്ടാണ് ഈ ഓരോ കേസിലും ജോയിൻ ഓർഡറുകളുടെ എണ്ണം വളരെയധികം വിലയിരുത്തുന്നത് അൽഗോരിതം അല്ലെങ്കിൽ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഏത് സിസ്റ്റവും ഏത് അൽഗോരിതം ഉപയോഗിക്കണം ഈ സാധ്യതകളെല്ലാം ശരിക്കും നോക്കാനാവില്ല കാരണം ഇത് എക്സ്പോനെൻഷിലി n n 4 അല്ലെങ്കിൽ 5 എന്നിവ ഉപയോഗിച്ച് അതിവേഗം വളരുന്നു ഡാറ്റാബേസ് എഞ്ചിനുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവർ ചില ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ഹ്യൂറിസ്റ്റിക്സ് എന്ന പദം നിങ്ങൾക്ക് പരിചിതമല്ലെങ്കിൽ ഒരു അൽഗോരിതം ഏകദേശ രീതിയിൽ ചെയ്യുന്നതിനുള്ള ഏകദേശ മാർഗ്ഗമാണ് ഹ്യൂറിസ്റ്റിക്സ് എല്ലായ്പ്പോഴും ശരിയായ ഉത്തരം ലഭിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല ഒരാൾ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒപ്റ്റിമൽ ഉത്തരമല്ല മറിച്ച് അത് ചെയ്യുന്നതിനുള്ള ഒരു കാര്യക്ഷമമായ മാർഗമാണ് അത് ഏകദേശം ശരിയാണ് ജോയിൻ ട്രീ എന്ന ആശയമാണ് ഹ്യൂറിസ്റ്റിക്സ് ജോയിൻ ട്രീ കൃത്യമായി എന്താണ് ഇത് എഴുതുന്ന ഒരു രീതിയാണ് അതിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നമ്മൾ ക്രമീകരിക്കുന്നു ഡാറ്റയുടെ ഈ ഉദാഹരണം പരിഗണിക്കുക മൂന്ന് ബന്ധങ്ങൾ r1 r2 r3 കൂടാതെ r1 r2 വേഗത്തിൽ ചെയ്തുവെന്ന് കരുതുക തുടർന്ന് അത് r3 മായി ചേരുന്നു അനുബന്ധ ജോയിൻ ട്രീ ഇനിപ്പറയുന്നവയാണ് r1 r2 എന്നതുമായി ചേർന്നിരിക്കുന്നു ഇത് പിന്നീട് r3 മായി ചേർക്കുന്നു ഏത് ക്രമത്തിലാണ് ചേരുന്നതെന്ന് ജോയിൻ ട്രീയിൽ വ്യക്തമാണ് അതിനാൽ എഴുതിയതെന്തും അത് എനിക്ക് നൽകുന്നു എല്ലാ ജോയിൻ ഓർഡറുകളും വിലയിരുത്തുന്നതിനുള്ള ചോദ്യം ചേരുന്ന എല്ലാ ട്രീയും എണ്ണി തിട്ടപ്പെടുത്തുന്ന ചോദ്യമാണ് നമ്മൾ ഇതിനകം വാദിച്ചതുപോലെ വളരെയധികം ജോയിൻ ട്രീകളും ആകാം അതിനാൽ ഇത് ചെയ്യാൻ ശ്രമിക്കുന്ന ഹ്യൂറിസ്റ്റിക്സ് ചേരുന്ന ട്രീകളെ ചെറുതാക്കും എല്ലാ തരത്തിലുമുള്ള ട്രീകളെ ചേരുന്നതായി കണക്കാക്കാൻ ഇത് ശ്രമിക്കുന്നില്ല പക്ഷേ ജോയിൻ ട്രീയിൽ ചെറുതാക്കാൻ മാത്രമാണ് അത് ശ്രമിക്കുന്നത് ആദ്യത്തേതിനെ ലെഫ്റ്റ് ഡീപ്പ് ജോയിൻ ട്രീ എന്ന് വിളിക്കുന്നു ലെഫ്റ്റ് ഡീപ്പ് ജോയിൻ ട്രീ എന്നത് എല്ലാ ആന്തരിക നോഡുകളുടെയും വലതുവശമാണ് വലത് വശം ഏക ബന്ധമാണ് ലെഫ്റ്റ് ട്രീ എന്തും ആകാം അത് ഒരൊറ്റ ബന്ധം ആകാം അല്ലെങ്കിൽ ജോയിൻ ആകാം അടിസ്ഥാനപരമായി ട്രീ ഇനിപ്പറയുന്നവയിൽ കാണപ്പെടുന്നു ട്രീ താഴെ പറയുന്ന സെറ്റ് എടുക്കുന്നു ഇത് r1 പിന്നെ r2 ഇത് പിന്നീട് r3 മായി ജോയിൻ ചെയ്യാം ഇത് r4 നോടൊപ്പം ജോയിൻ ചെയ്യാം ഈ വലതുവശങ്ങളെല്ലാം ഒറ്റ ബന്ധങ്ങളാണെന്നും ഇടത് വശത്ത് ഒരൊറ്റ ബന്ധമാണെന്നും അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ജോയിൻ ചെയ്യുമെന്നും ശ്രദ്ധിക്കുക ഇത് ലെഫ്റ്റ് ഡീപ്പ് ജോയിൻ ട്രീയാണ് ലെഫ്റ്റ് ഡീപ്പ് ജോയിൻ ട്രീയിന് സമാനമായി റൈറ്റ് ഡീപ്പ് ജോയിൻ ട്രീയെക്കുറിച്ചും ചിന്തിക്കാനാകും അവിടെ ആഴം വലതുവശത്ത് മാത്രമാണ് ഇടത് വശം ഒരു ബന്ധം മാത്രമാണ് അതുകൊണ്ടാണ് അതിനെ റൈറ്റ് ഡീപ്പ് ജോയിൻ ട്രീ എന്ന് വിളിക്കുന്നത് പിന്നെ ഈ സ്ഥലത്തെ മൂന്നാമത്തേത് ഒരു സിഗ്സാഗ് ട്രീ എന്ന് വിളിക്കപ്പെടുന്നു അവിടെ ഏത് വശത്ത് ഒരൊറ്റ ബന്ധം എന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഒരു വശത്തെങ്കിലും ഒരൊറ്റ ബന്ധം ആയിരിക്കണം ഒരു ആന്തരിക നോഡിന്റെ ഒരു ചൈൽഡ് എങ്കിലും ഒരൊറ്റ ബന്ധമാണ് ഇത് ഒരു സിഗ്സാഗ് ട്രീ എന്ന് വിളിക്കപ്പെടുന്നു ഒരു സിഗ്സാഗ് ട്രീന്റെ ഉദാഹരണം ഇനിപ്പറയുന്നവയായിരിക്കാം നമുക്ക് പറയാം ഇത് വലതുവശത്തും ഇത് ഇടതുവശത്തുമാണ് ഇതൊരു സിഗ്സാഗ് ട്രീയാണ് ഇപ്പോൾ ശ്രദ്ധിക്കുക ഓരോ ജോയിനിനും കുറഞ്ഞത് ഒരു ചൈൽഡ് എങ്കിലും ഒരൊറ്റ ബന്ധമാണ് അതിനാൽ അത് ഒരു സിഗ്സാഗ് ട്രീയാണ് ഒടുവിൽ ബുഷി ട്രീയുണ്ട് അതിനെ ഒരു ബുഷി ട്രീ എന്ന് വിളിക്കുവാൻ കാരണം അവിടെ അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ല അത് പ്രധാനമായും ഒരു ജോയിൻ ട്രീന്റെ സാമാന്യവൽക്കരിച്ച രൂപമാണ് ബുഷി ട്രീകളുടെ എണ്ണം പ്രധാനമായും ചേരുന്ന എല്ലാ ഓർഡറുകളുമാണ് അതാണ് ചോദ്യം അതാണ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചത് ബുഷി ട്രീ ഏറ്റവും സാധാരണമായ രൂപമാണ് പക്ഷേ നമ്മൾ അതിനെ വിലയിരുത്തുന്നില്ല നമ്മൾ കണ്ട ഇത്തരത്തിലുള്ള നാല് ട്രീകളിൽ ഓരോന്നിനും ജോയിൻ ട്രീകളുടെ എണ്ണം വിശകലനം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ലെഫ്റ്റ് ട്രീ ഡീപ്പിലോ റൈറ്റ് ട്രീ ഡീപ്പിലോ ജോയിൻ ചെയ്യുന്ന ട്രീകളുടെ എണ്ണം അത് ഒന്നുതന്നെയാണ് വ്യത്യസ്തമല്ല ലെഫ്റ്റ് ഡീപ്പിനും റൈറ്റ് ഡീപ്പിനും ജോയിൻ ചെയ്യാവുന്ന സാധ്യതകളുടെ എണ്ണം 1 ആണ് കാരണം ലെഫ്റ്റ് ട്രീ ഡീപ്പിന് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു മാർഗ്ഗമേയുള്ളൂ വലത് വശം മാത്രം ഒരൊറ്റ ബന്ധമാണ് വലതുവശത്ത് ആഴത്തിൽ ഇടത് വശത്ത് ഒറ്റ ബന്ധമുണ്ട് ഒരു സിഗ്സാഗ് ട്രീയ്ക്ക് സാധ്യമായ കോൺഫിഗറേഷന്റെ എണ്ണം 2n 2 ആണ് എന്തുകൊണ്ടാണ് ഇത് 2n 2 എന്ന് കാണാൻ നമുക്ക് താൽക്കാലികമായി നിർത്താം ആദ്യത്തെ രണ്ട് ലീഫുകൾ r1 r2 എന്നിവ ഇവിടെ വയ്ക്കാം അതിനുശേഷം ഏതെങ്കിലും അപ്പർ ജോയിനുകൾക്ക് ഒരൊറ്റ ബന്ധം ഇടതുവശത്തോ വലതുവശത്തോ സ്ഥാപിക്കാവുന്നതാണ് ഈ n 2 സിംഗിൾ റിലേഷനുകളിൽ ഏതെങ്കിലുമൊന്നിൽ അതിന് ഇടത്തേയ്ക്കും വലത്തേയ്ക്കും രണ്ട് ചോയ്സുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇത് 2n 2 ആയി വരുന്നത് ബുഷി ട്രീകൾക്കായി ഈ രീതിയിൽ നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് ഇത് പ്രധാനമായും നമ്മൾ മുമ്പ് കണ്ട കറ്റാലൻ സംഖ്യയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ജോയിൻ ട്രീ കോൺഫിഗറേഷനുകളുടെ എണ്ണം ചോദ്യം ഇതാണ് ജോയിൻ ട്രീന് എടുക്കാവുന്ന ആകൃതികളുടെ എണ്ണം ഇതാണ് കൂടാതെ ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ലീഫുകൾ സ്ഥാപിക്കുന്നതിനുള്ള വഴികളുടെ എണ്ണമാണ് ഓർഡർ പ്രാധാന്യമർഹിക്കുന്നു അതിനാൽ r1 r2 പിന്നെ r3 എന്നിവ ക്രമമാണ് വഴികളുടെ എണ്ണം 1 മാത്രമാണ് കാരണം ഓർഡർ പ്രധാനമാണ് അതിനാൽ ഓർഡർ പ്രധാനമാണെങ്കിൽ ഇത് 1 ആണ് ഓർഡർ പ്രശ്നമല്ലെങ്കിൽ ഇത് പ്രശ്നമല്ല വ്യത്യസ്ത രീതികളിൽ r1 r2 എന്നിവ സ്ഥാപിക്കുന്നു r1 മുതൽ rn വരെ ഏതെങ്കിലും ക്രമമാറ്റത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ലീഫുകൾ സ്ഥാപിക്കുന്നതിനുള്ള മൊത്തം വഴികളുടെ എണ്ണം n ഇവ രണ്ടും പരിഹരിച്ചാൽ മൊത്തം ട്രീകളുടെ എണ്ണം പ്രധാനമായും ട്രീ കോൺഫിഗറേഷനുകളുടെ ആകെ എണ്ണമാണ് ട്രീ സൃഷ്ടിക്കാൻ കഴിയുന്ന വഴികൾ ഇവയാണ് വഴികളുടെ എണ്ണത്തിന്റെ മടങ്ങ് ലീഫുകൾ സ്ഥാപിക്കാം ബുഷി ട്രീകളാണെന്നും ക്രമം പ്രധാനമാണെന്നും പറഞ്ഞാൽ എന്താണ് വഴി എന്ന് നമുക്കറിയാം ഒരു ലെഫ്റ്റ് ഡീപ്പ് ജോയിൻ ട്രീയാണെങ്കിൽ ക്രമം പ്രശ്നമല്ലെങ്കിൽ എത്ര ട്രീകൾ ചെയ്യാനാകുമെന്നത് നമുക്കറിയാം ഇത് ജോയിൻ ഓർഡർ വിലയിരുത്തുന്നതിനുള്ള മാർഗമാണ് മൊത്തം ട്രീകളുടെ എണ്ണം കണ്ടെത്താനുള്ള മാർഗ്ഗമാണിത് പൊതുവേ എന്താണ് ചെയ്യുന്നത് പ്രായോഗിക സംവിധാനങ്ങൾ ലെഫ്റ്റ് ഡീപ്പ് ജോയിൻ ട്രീയോ റൈറ്റ് ഡീപ്പ് ജോയിൻ ട്രീയോ മാത്രമേ വിലയിരുത്തുന്നുള്ളൂ ചിലപ്പോൾ സിഗ്സാഗ് ട്രീ വിലയിരുത്തുകയും ചെയ്യും n വളരെ വലുതല്ലെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത് അത് ചെയ്യുന്നതിനുള്ള ഒരു അൽഗോരിതം എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ജോയിൻ പരിഗണിക്കുക അത് r1 മുതൽ rn വരെ ആണ് യഥാർത്ഥത്തിൽ അത് എങ്ങനെ ചെയ്യാം ഇതിനായി ഡൈനാമിക് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നു ഇത് ഇനിപ്പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഇത് ഇപ്പോൾ S ആണെന്ന് കരുതുക താഴെ പറയുന്ന രീതിയിൽ S വിഭജിക്കുകയും എസ് എന്നത് എഴുതുകയും ചെയ്യാം ഈ S ജോയിൻ ചെയ്യേണ്ട എല്ലാ ബന്ധങ്ങളുടെയും കൂട്ടമാണ് ഇപ്പോൾ S1 എന്നത് എല്ലാ ബന്ധത്തിന്റെയും ഒരു സെറ്റ് ആണ് അപ്പോൾ പാർട്ടീഷൻ S1 ഉം ഉം ആണ് ഇവ മികച്ച രീതിയിൽ എഴുതാം ചോദ്യം എന്തെന്നാൽ S വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് S വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം S നെ S വഴി ചെറുതാക്കുക എന്നതാണ് ഈ കോൺഫിഗറേഷൻ കുറയ്ക്കുന്ന S1 തിരഞ്ഞെടുക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നത് S1 ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് S1 വീണ്ടും S11 എന്നിങ്ങനെ തിരിക്കാം S11 കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് S11 ഉം മറ്റും ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ മാർഗ്ഗമാണിത് ഇതൊരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ ആണ് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഈ ഓരോ ഉപവിഭാഗത്തിന്റെയും പരിഹാരങ്ങൾ പ്രധാനമായും S1 S11 മുതലായവ ഒരു പട്ടിക പോലെ സംഭരിച്ചിരിക്കുന്നു ഡൈനാമിക് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ ഇതാണ് എന്നിട്ട് അവയിൽ ഏതെങ്കിലും ഒന്ന് കണക്കുകൂട്ടുക അത് ചുറ്റുമുള്ളതെല്ലാം ഉപയോഗിക്കുന്നു ഇത് മുമ്പത്തെ എല്ലാ കണക്കുകൂട്ടലുകളും ഉപയോഗിക്കുന്നു ഈ ജോയിൻ ഓർഡറിനുള്ള അൽഗോരിതം അതാണ് നമുക്ക് കാണാനാകുന്നതുപോലെ ഇത് എക്സ്പോണൻഷ്യൽ ആണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ വേഗതയുള്ളതാണ് എന്നാൽ അത് ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട് ഇന്ട്രെസ്റ്റിംഗ് സോർട്ട് ഓർഡർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അനുബന്ധ ആശയമാണിത് ഇന്ട്രെസ്റ്റിംഗ് ഓർഡറിൽ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാൻ കഴിയും രേഖകൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് പിന്നീട് ഉപയോഗപ്രദമാകും ആ പഴയ പ്രവർത്തനത്തിൽ പ്രത്യേക ആട്രിബ്യൂട്ട് Aൽ ഒരു സെലക്ഷൻ ചെയ്തതിനുശേഷം ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് കരുതുക അതിനുശേഷം പരിഹാരം പ്രയോഗിക്കാൻ പോകുന്നു ഔട്ട്പുട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഉൽപാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ രേഖകൾ A അനുസരിച്ച് അടുക്കുന്നുവെങ്കിൽ തുടർന്നുള്ള തിരഞ്ഞെടുപ്പ് വളരെ വേഗത്തിലാകും അത് ഒരു ഇന്ട്രെസ്റ്റിംഗ് സോർട്ട് ഓർഡർ ആണ് കാരണം ഇത് പിന്നീട് ഉപയോഗപ്രദമാണ് മുമ്പത്തെ പ്രവർത്തനം ഏത് ക്രമത്തിലും ഔട്ട്പുട്ട് ചെയ്യാനാകുമെന്നത് ശ്രദ്ധിക്കുക പക്ഷേ അത് പിന്നീട് ഉപയോഗപ്രദമാക്കുന്നു അത് ഒരു ഇന്ട്രെസ്റ്റിംഗ് സോർട്ട് ഓർഡർ ആണെങ്കിൽ അത് A പ്രകാരം അടുക്കിയിരിക്കുന്നു